സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻപിടിഇഎൽ മൂക്ക് നിന്നുള്ള ഈ കോഴ്സിന്റെ രണ്ടാം ആഴ്ചയിലെ അവസാന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം അതിനാൽ ഈ ആഴ്ചയിൽ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആദ്യത്തെ പ്രധാന ഭാഗം സംഘർഷത്തിലാണ് തീരുമാനവും രണ്ടാമത്തേത് നിങ്ങളുടെ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള സമാപന ഭാഗവും ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എങ്ങനെ നിയന്ത്രിക്കാനാകുമെന്ന് ഞങ്ങൾ നോക്കാൻ പോകുന്നു സമ്മർദ്ദം അപ്പോൾ സമ്മർദ്ദത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മികച്ചത് പുറത്തെടുക്കാം മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്തതിന്റെ ഒരു പെട്ടെന്നുള്ള റീക്യാപ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ സമ്മർദ്ദത്തെക്കുറിച്ച് സ്വയം അവബോധം സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിച്ചു സമ്മർദ്ദം യഥാർത്ഥത്തിൽ സാഹചര്യപരമായ ആവശ്യവും വ്യക്തിഗത വിതരണവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചു ഇത് യഥാർത്ഥത്തിൽ സാമ്പത്തികശാസ്ത്രത്തിൻറെയും അതിൻറെ ആവശ്യത്തിൻറെയും വിതരണത്തിൻറെയും ഒരു പ്രശ്നമാണ് ഇത് വളരെ ആവശ്യമുള്ള ഒരു സാഹചര്യമാണ് തുടർന്ന് വിതരണത്തിന് പ്രതീക്ഷകൾ നിറവേറ്റാനും ആവശ്യം നിറവേറ്റാനും കഴിയില്ല ഇപ്പോൾ ആരാണ് സമ്മർദ്ദത്തിലാകുന്നത് എന്നതുപോലുള്ള അടുത്ത ചോദ്യത്തിലേക്ക് മനുഷ്യർ മാത്രമാണോ സമ്മർദ്ദത്തിലാകുന്നത് ഇല്ല എല്ലാ ജീവജാലങ്ങളും സമ്മർദ്ദത്തിലാകുന്നത് പോലെയാണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു പിന്നെ സമ്മർദ്ദം അനുഭവപ്പെടാത്ത ചില പ്രത്യേക തരം ആളുകളുണ്ടോ അതിനും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനാണോ എന്ന വസ്തുത പരിഗണിക്കാതെ തന്നെ നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടും പ്രത്യേക തരം നിങ്ങൾ ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലാണെങ്കിലും നിങ്ങൾ ഒരു ലേ ബാക്ക് തരത്തിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് എ ടൈപ്പ് ബി അല്ലെങ്കിൽ ടൈപ്പ് എബി വ്യക്തിത്വമാണ് നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടും നിങ്ങൾക്ക് സമ്മർദ്ദം അനുഭവപ്പെടാത്ത ഒരേയൊരു സമയം നിങ്ങളുടെ ശവപ്പെട്ടിയിൽ കിടക്കുന്ന സമയമാണ് അതിനാൽ നിങ്ങളുടെ ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ സമ്മർദ്ദം ലഭിക്കാത്ത സമയമാണിത് ഇപ്പോൾ ഈ ശാരീരിക സമ്മർദ്ദം എന്താണെന്നും മാനസികവും വൈകാരികവുമായ സമ്മർദ്ദം എന്താണെന്നും ഞാൻ നിങ്ങളോട് ഹ്രസ്വമായി പറയണം ശാരീരിക സമ്മർദ്ദം നിങ്ങളുടെ ശരീരത്തെ പ്രത്യേകിച്ച് ബാധിക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ തൊഴിലാളിയും പിന്നെ ഒരു ദിവസവേതന തൊഴിലാളിയുടെ കാര്യം പറയുകയോ എടുക്കുകയോ ചെയ്താൽ ആരാണ് ഒരു നിർമ്മാണ സൈറ്റിൽ ജോലി ചെയ്യുന്നത് അതിനാൽ അവൻ 5 ഇഷ്ടികകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം ഇപ്പോൾ സൂപ്പർവൈസർ ജോലി വളരെ വേഗത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പണം നൽകുമെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ നിങ്ങൾ 10 ഇഷ്ടികകൾ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അവൻ 89 വഹിക്കാൻ ശ്രമിക്കുന്നു അവൻ 10 വഹിക്കുമ്പോൾ അത് ശരീരത്തെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു അവിടെ കഴുത്തിൽ വളരെയധികം വേദനയുണ്ടെങ്കിൽ ശരീരത്തിൽ തന്നെ വളരെയധികം വേദനയുണ്ട് ഇപ്പോൾ അവന് കഴിയുമോ അത് ചെയ്യുന്നതിന് എത്ര തവണ ഓരോ ദിവസവും കുറഞ്ഞത് 30 റൌണ്ടുകളെങ്കിലും ആവശ്യമാണ് അദ്ദേഹത്തിന് 20ന് മുകളിൽ ജീവിക്കാൻ കഴിയുമോ അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുമോ അത് അദ്ദേഹത്തിന് ശാരീരിക സമ്മർദ്ദം നൽകുന്നുണ്ടോ ഇപ്പോൾ വൈകാരിക സമ്മർദ്ദംഃ ലളിതമായ തലത്തിൽ നിങ്ങളുടെ മുറി പങ്കാളി നിങ്ങളോട് സംസാരിക്കുന്നത് നിർത്തി നിങ്ങളുടെ അടുത്ത സുഹൃത്ത് നിങ്ങളുടെ ജന്മദിനത്തിൽ നിങ്ങൾക്ക് ആശംസകൾ നേർന്നിട്ടില്ല ഇപ്പോൾ ഇതുപോലുള്ള ഏതെങ്കിലും നേരിയ കാര്യങ്ങൾ നിങ്ങളെ അൽപ്പം വേദനിപ്പിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം നൽകും മറ്റേയാൾ നിങ്ങളോട് സംസാരിക്കുമോ ഇല്ലയോ വേർപിരിയലിൻ്റെയോ ബന്ധം തകരുന്നതിൻ്റെയോ സമയത്ത് നിങ്ങൾക്ക് വൈകാരികമായി ആഴത്തിലുള്ള വിഷമം സംഭവിക്കാം വിവാഹമോചനം പോലുള്ള സാഹചര്യങ്ങൾ ഈ വ്യക്തി എല്ലായ്പ്പോഴും ഒരു പ്രശ്നത്തിലാണെന്ന് നിങ്ങൾ കരുതിയതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുമായുള്ള വൈകാരിക ബന്ധം ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ കരുതി പക്ഷേ അപ്പോൾ ഈ വ്യക്തി വന്ന് അവൻ അല്ലെങ്കിൽ അവൾ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് നിങ്ങളോട് പറയുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് ആഴത്തിലുള്ള വൈകാരിക സാഹചര്യത്തിന് കാരണമാകും തുടർന്ന് നിങ്ങൾ മാനസിക തലത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഈ മാനസികമോ മാനസികമോ ആയ സമ്മർദ്ദവുമുണ്ട് മിക്കപ്പോഴും ഉദാഹരണത്തിന് സമയപരിധി പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് തുടർന്ന് മാനസികമായി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു വൈകാരികമായി നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ശരീരത്തെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക നിങ്ങളുടെ മനസ്സ് തന്നെ സൃഷ്ടിപരമായി ചിന്തിക്കില്ല പിന്നെ മനഃശാസ്ത്രപരമായി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുതരം ഭീഷണിയുടെ ധാരണ ലഭിക്കുന്നു നിങ്ങൾ കരുതുന്നു ബോസ് നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് നിങ്ങളെ ശാസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കില്ല പരസ്യമായി അപമാനിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ഭയം തോന്നും അതിനാൽ നിങ്ങൾക്ക് ഒരു മാനസിക ഭീഷണിയുണ്ട് എന്നാൽ സമ്മർദ്ദത്തെ ശാരീരികമോ മാനസികമോ വൈകാരികമോ മാനസികമോ ആയി വേർതിരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു അപകടത്തിൽ ഒരു വ്യക്തിക്ക് കാലുകൾ നഷ്ടപ്പെടുന്നു അതിനാൽ ഇത് ഒരു ശാരീരിക വേദനയാണ് ഇത് അദ്ദേഹം അംഗീകരിക്കേണ്ട ഒരു ശാരീരിക കാര്യമാണ് പക്ഷേ അതിനുപുറമെ അദ്ദേഹം അനുഭവിക്കുന്ന ശാരീരിക ആഘാതം വേദന വേദന ആഘാതം എന്നിവയും വൈകാരികമാണ് കാരണം വൈകാരികമായി അയാൾക്ക് ഇത്തരത്തിലുള്ള വേദനയുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട് തുടർന്ന് അയാൾക്ക് തൻറെ ആശ്രിതരെ അദ്ദേഹം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതുപോലുള്ള കാര്യങ്ങൾ കാണാൻ പിന്നെ മറ്റുള്ളവരുടെ കണ്ണുകളിൽ അവൻ കാണുന്ന വൈകാരിക വേദനയും പിന്നെ മാനസികമായ വേദനയും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും ഇതുമായി സംയോജിപ്പിക്കും മറ്റൊരു സാഹചര്യം എടുക്കുക അതിനാൽ അവൻ അല്ലെങ്കിൽ അവൾ മരിക്കാൻ പോകുകയാണെന്ന് ഡോക്ടർ രോഗിയോട് പറയുന്നു ക്യാൻസർ അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ രോഗം കാരണം തൽക്ഷണം ഇപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത് ശാരീരിക വേദന മാത്രമല്ല വൈകാരികവും നൽകാൻ പോകുന്നു മാനസികവും മാനസികവുമായ സമ്മർദ്ദം അവൻ എങ്ങനെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ പോകുന്നു അവൻ എങ്ങനെയാണ് ജോലി കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ പരിമിതമായ സമയത്തിനുള്ളിൽ അദ്ദേഹം എങ്ങനെ ജീവിതത്തെ സന്തുലിതമാക്കാൻ പോകുന്നു ഇപ്പോൾ നമുക്ക് പറയാം അദ്ദേഹത്തിന് വളരെ സ്നേഹനിധിയായ ഒരു മകളുണ്ട് മകൾ അവനെ വളരെയധികം സ്നേഹിക്കുന്നു മകൾ അത് അറിയാൻ വരുന്നു ഇപ്പോൾ മകൾക്ക് ശാരീരിക വേദന അനുഭവപ്പെടില്ല പക്ഷേ മകൾക്ക് അനുഭവപ്പെടും വൈകാരിക വേദന മകളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകും ഒരു മാനസിക ഭയം ഉണ്ടാകും ഓരോ തവണയും അവൾ അവളുടെ പിതാവിനെ കാണുമ്പോൾ ഈ ആൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾ അത്ഭുതപ്പെടുന്നു ഇത് അവസാന ദിവസമായിരിക്കുമോ ചിലപ്പോൾ രോഗി ഉറങ്ങുമ്പോൾ പെൺകുട്ടി അത്ഭുതപ്പെടുന്നു അവൻ ഉറങ്ങുകയാണോ അതോ മരിച്ചോ ഇപ്പോൾ ശാരീരിക സമ്മർദ്ദത്തിൽ നിന്ന് ആരംഭിച്ച ഈ മാനസിക പിരിമുറുക്കം മാനസിക ഭയം അതിനാൽ അത് ഒരുതരം സങ്കീർണ്ണമായ കാര്യമാണ് എന്നാൽ ഇവിടെ വീണ്ടും കാര്യങ്ങൾ അനിവാര്യമാണ് അപ്പോൾ ആ സമ്മർദ്ദം കൊല്ലുന്നത് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതില്ല ഞങ്ങൾ കാരണം ഞാൻ വളരെ അപ്രതീക്ഷിതമായ ഒരു ആഘാതകരമായ സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചു അത് ശരിക്കും സമ്മർദ്ദകരമായിരിക്കും എന്നാൽ അപ്പോൾ ഒരാൾക്ക് അതിൽ നിന്ന് പുറത്തുവരാൻ പോലും കഴിയും ഇപ്പോൾ ഒരാൾക്ക് അത് എങ്ങനെ പുറത്തുവരുമെന്ന് നോക്കാം അതിനുമുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ നമ്മൾക്ക് അടിസ്ഥാനപരമായി രണ്ട് തരത്തിലുള്ള സമ്മർദ്ദമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്ന് യൂസ്ട്രസ് ആണ് അത് നല്ലതാണ് സമ്മർദ്ദം മറ്റൊന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന മോശം സമ്മർദ്ദമാണ് ഇപ്പോൾ ചോദ്യത്തിലേക്ക് മടങ്ങിവരുന്നു നിങ്ങൾ എന്തിനാണ് സമ്മർദ്ദത്തെ നിയന്ത്രിക്കേണ്ടത് കാരണം നിങ്ങൾ ചില ആളുകളെ നോക്കുകയാണെങ്കിൽ ചില ആളുകൾ വീട്ടിലോ ജോലിസ്ഥലത്തോ ഉള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ സന്തോഷമുള്ളവരും ശാന്തരുമാണെന്ന് നിങ്ങൾക്കറിയാം സമ്മർദ്ദം ഒഴിവാക്കാനാവാത്ത ഒരു പ്രതിഭാസമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു അത് സംഘർഷം പോലെ ജീവിതത്തിന്റെ ഭാഗമാണ് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം നിങ്ങളും സമ്മർദ്ദത്തിലാകും വാസ്തവത്തിൽ സംഘർഷങ്ങളും സമ്മർദ്ദവും കൈകോർക്കുന്നു അതിനാൽ ഒന്ന് ഉണ്ട് പിന്നെ മറ്റൊന്ന് എല്ലായ്പ്പോഴും ഉണ്ട് ഒരെണ്ണം പരിഹരിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ രീതികൾ അല്പം വ്യത്യസ്തമാണെങ്കിലും മറ്റൊന്ന് എളുപ്പത്തിൽ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്നാൽ സമ്മർദ്ദം വളരെ സാധാരണമായ ഒരു കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അത് കാണുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ എല്ലായ്പ്പോഴും സമ്മർദ്ദത്തിലല്ല പിന്നെ ചില ആളുകളുണ്ട് മിക്കപ്പോഴും നിങ്ങൾ അവരെ വളരെ സന്തോഷത്തോടെയും വളരെ പ്രചോദനാത്മകമായും വളരെ പ്രോത്സാഹജനകമായും കാണുന്നു തണുത്ത വളരെ ശാന്തമായ വളരെ ഒത്തുകൂടിയ എന്നിട്ട് അവർക്ക് സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും ഈ ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് അവരെ പ്രചോദിപ്പിക്കുന്നത് എന്താണ് അവരിൽ മറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അവ കൂടുതൽ തെളിയിക്കുമ്പോൾ ഇവർ പഠിച്ച ആളുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും സമ്മർദ്ദത്തെ എങ്ങനെ നിയന്ത്രിക്കാം സമ്മർദ്ദത്തെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം അതിനെ എങ്ങനെ നിയന്ത്രിക്കാം സമ്മർദ്ദം യഥാർത്ഥത്തിൽ വളരെയധികം നാശനഷ്ടമുണ്ടാക്കുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനുപകരം അവരുടെ ജീവിതത്തെ നയിക്കുക അവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സമ്മർദ്ദത്തെ നിയന്ത്രിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ അത് നിയന്ത്രിക്കേണ്ടത് ആളുകൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ആളുകൾക്ക് വളരെ സന്തോഷിക്കാൻ കഴിയും മറുവശത്ത് സമ്മർദ്ദം മൂലം നിരവധി ആളുകൾ മരിച്ചുവെന്നും നിങ്ങൾക്കറിയാം പൂർണ്ണമായും സമ്മർദ്ദം കാരണം അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ നേരെമറിച്ച് സമ്മർദ്ദത്തെ അതിജീവിച്ചവർ ശക്തമായ നേതാക്കളായി ഉയർന്നുവന്നിട്ടുണ്ട് മനുഷ്യനിർമ്മിതമോ പ്രകൃതിദത്തമോ ആയ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിച്ചു ഒരു കാരണവുമില്ലാതെ തടവിലാക്കപ്പെട്ട ആളുകൾ ഉദാഹരണത്തിന് ഏകാഗ്രതയിലേക്ക് അയയ്ക്കപ്പെടുന്ന ആളുകളുടെ കാര്യമെടുക്കുക ക്യാമ്പുകൾ അതിനാൽ ആളുകൾ തടങ്കൽപ്പാളയങ്ങളിൽ നിന്ന് പുറത്തുവന്നു അതിനാൽ വലിയ പുതുമയുള്ളവരായി ഉയർന്നുവന്നു ഒന്നുകിൽ സംരംഭകത്വ വശത്തോ ശാസ്ത്ര വശത്തോ അല്ലെങ്കിൽ അത് എന്തുതന്നെയായാലും അതിനാൽ അവർ പുറത്തുവന്നു തുടർന്ന് അവർ മറ്റൊരു കൂട്ടം ആളുകളെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ചിലപ്പോൾ പോലും രക്ഷിച്ചു മുഴുവൻ മനുഷ്യരാശിയും കാരണം അവർ വളരെയധികം അനുഭവിച്ചപ്പോൾ അവർ ശക്തമായ നേതാക്കളായി ഉയർന്നുവന്നു സമ്മർദ്ദവും അതിനെ എങ്ങനെ നേരിടണമെന്ന് അവർ പഠിച്ചു പ്രശസ്ത തത്വചിന്തകനായ നീഷെ പറഞ്ഞതുപോലെ നിങ്ങളെ കൊല്ലാത്തത് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു അതിനാൽ സമ്മർദ്ദം നിങ്ങളെ കൊല്ലാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ശക്തരായി ഉയർന്നുവരും എന്നാൽ അത് നിങ്ങളെ കൊല്ലാൻ അനുവദിക്കുകയാണെങ്കിൽ അപ്പോൾ അത് നിങ്ങളെ എങ്ങനെ കൊല്ലും അതിനാൽ ഇത് നിങ്ങൾക്ക് ഉയർന്ന ബിപി നൽകും രക്തസമ്മർദ്ദ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും തുടർന്ന് അത് വർദ്ധിക്കും ഹൃദയാഘാതം പ്രമേഹം എന്നിവയിൽ അവസാനിക്കുന്നു അതിനാൽ പ്രമേഹം വീണ്ടും ബിപി യുമായി സംയോജിപ്പിക്കും നെർവസ് ബ്രേക്ക്ഡൌണുകൾ നിങ്ങൾക്ക് ഉന്മാദമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തകർന്നേക്കാം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയും തുടർന്ന് ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായി തോന്നുന്ന ഒന്ന് പോലും ഈ സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ഒരാൾ പഠിക്കുകയാണെങ്കിൽ പ്രമേഹമോ രക്തസമ്മർദ്ദമോ എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയും ഇപ്പോൾ സമ്മർദ്ദം നിയന്ത്രിക്കപ്പെടുമ്പോൾ അതിൽ എന്താണ് നല്ലത് ജോലികൾ എളുപ്പത്തിലും മികച്ച രീതിയിലും പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും സമ്മർദ്ദത്തിലായ ഒരു വ്യക്തിയെ നോക്കുക സമ്മർദ്ദം കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയെ നോക്കുക ഒരേ ജോലി ഒരേ സമയം സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് സമയത്തിന് മുമ്പ് അത് പൂർത്തിയാക്കാനും വിശ്രമത്തിനായി കുറച്ച് സമയം മാറ്റിവെക്കാനും കഴിയും അയാൾക്ക് വിസിൽ ചെയ്യാൻ കഴിയും അയാൾക്ക് ഒരു ഹെഡ്ഫോൺ വയ്ക്കാനും സംഗീതം കേൾക്കാനും കഴിയും മറ്റേയാൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് അലഞ്ഞുതിരിയുന്നുണ്ടാകാം സമ്മർദ്ദത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുന്ന വ്യക്തി മറ്റ് ജോലികൾക്കും സമയം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഗുണപരമായ സമയം ചെലവഴിക്കേണ്ടത് കൂടുതൽ പ്രധാനമായ കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ വിശ്രമിക്കുക കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്രമിക്കാൻ സമയം നൽകേണ്ടതുണ്ട് നിങ്ങളുടെ സമ്മർദ്ദത്തെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ പരീക്ഷണ സമയങ്ങളിൽ പോലും നിങ്ങൾ ശാന്തത പാലിക്കും അതിനാൽ നിങ്ങൾ വളരെ പരിഭ്രാന്തരാകുന്നുവെന്ന് നിങ്ങളുടെ മുഖത്ത് കാണിക്കില്ല ആളുകൾക്ക് അറിയില്ല നിങ്ങൾ സമ്മർദ്ദത്തിലാണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില ആളുകൾ എല്ലായ്പ്പോഴും സന്തോഷവാന്മാരാണെന്ന് നിങ്ങൾ കരുതുന്നു പ്രചോദനം നൽകുന്നു അവർക്ക് എങ്ങനെ അങ്ങനെ ആകാൻ കഴിയുമെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നു നിങ്ങൾ അത് നോക്കുമ്പോൾ തന്നെ മുഖം തന്നെ വളരെ പ്രചോദനാത്മകമാണ് അപ്പോൾ അത് എങ്ങനെ സാധ്യമാകും അവർ എങ്ങനെയാണ് ഇത്ര ശാന്തരും ഒത്തുകൂടിയതും ഇത് ലളിതമായി പറഞ്ഞാൽ അവർ സമ്മർദ്ദം കൈകാര്യം ചെയ്തു തുടർന്ന് അത് എങ്ങനെ കാണിക്കരുതെന്ന് അവർക്കറിയാം മുഖം കാരണം അവർക്ക് അത് നിയന്ത്രണത്തിലാക്കാനും പോസിറ്റീവ് രീതിയിൽ ഉപയോഗിക്കാനും കഴിയും സമ്മർദ്ദത്തെ മറികടക്കുക സമ്മർദ്ദത്തെ ഇല്ലാതാക്കുക തുടങ്ങിയ വാക്കുകളല്ല ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക എന്നാണ് ഞാൻ പറയുന്നത് റെഗുലേറ്റിംഗ് എന്ന വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് താൽപ്പര്യമുള്ളത് എന്തുകൊണ്ട് സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക സമ്മർദ്ദത്തെ നിയന്ത്രിക്കുക സമ്മർദ്ദത്തെ നയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്ക് ഒരു ഫാനിൽ റെഗുലേറ്റർ ഉള്ളതിനാൽ നിങ്ങൾക്ക് സമ്മർദ്ദം ഉപയോഗിക്കണമെങ്കിൽ വളരെ വെല്ലുവിളി നേരിടുക ഒന്ന് വേഗതയുടെ തോത് വർദ്ധിപ്പിക്കുക തുടർന്ന് അതിവേഗ പ്രകടനം ആസ്വദിക്കുക നിങ്ങൾ അത് റിസ്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത സമയങ്ങളുണ്ട് അതിനാൽ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു തലത്തിൽ പ്രവർത്തിക്കുക ഈ സമ്മർദ്ദം എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ സമ്മർദ്ദം കൂടുതലും പരിസ്ഥിതിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും വരുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ചുറ്റുപാടുകൾ നിങ്ങളുടെ വീട് പോലെയാകാം അത് നിങ്ങളുടെ ഓഫീസ് പോലെയാകാം എന്നാൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലവും നിങ്ങൾ ചെലവഴിക്കുന്ന സ്ഥലവും ആയിരിക്കാം ഇത് വിദ്യാഭ്യാസത്തിനോ നിങ്ങളുടെ ജോലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊതു ചുറ്റുപാടുകൾക്കോ പോകുക മുഴുവൻ രാജ്യത്തെയും പോലെ പെട്ടെന്ന് ശത്രു രാജ്യം വന്ന് കുറച്ച് ബോംബുകൾ ഇടുന്നു അതിനാൽ ഇത് വീണ്ടും സമ്മർദ്ദകരമായ സാഹചര്യമാണ് നിങ്ങൾ എയർപോർട്ടിൽ പോയി തുടർന്ന് ചില ബോംബുകൾ ബോംബിട്ട് തകർത്തതായി നിങ്ങൾ മനസ്സിലാക്കി അതിനാൽ നിങ്ങൾ സ്ഥലത്തു നിന്ന് ഓടിപ്പോകുന്നു നിങ്ങളുടെ സഹപ്രവർത്തകർ കാരണം ജോലിസ്ഥലത്ത് നിന്ന് സമ്മർദ്ദം വരാം ജീവിതശൈലി കാരണം സമ്മർദ്ദവും നിങ്ങൾക്ക് വരാം നിങ്ങൾ ഒരു ചെലവഴിച്ചയാളാണെന്ന് കരുതുക നിങ്ങൾ എന്തും ചെലവഴിക്കുന്നതുപോലെ നിങ്ങൾ ഒരു ചെലവഴിച്ചയാളാണെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ കടയിൽ പോകുമ്പോഴെല്ലാം സാധനങ്ങൾ വാങ്ങാൻ തോന്നുന്നുവെന്ന് നിങ്ങൾ ഷോപ്പാഹോളിക് ആണ് നിങ്ങൾ ഷോപ്പിംഗ് ആസ്വദിക്കുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പുചെയ്യുകയും തുടർന്ന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ധാരാളം ക്രെഡിറ്റ് ലോൺ എടുക്കുന്നു നിങ്ങൾക്ക് അത് അടയ്ക്കാൻ കഴിയില്ല തുടർന്ന് നിങ്ങളുടെ വരുമാനവും ചെലവും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ നിങ്ങളുടെ ജീവിതശൈലി തന്നെ വലിയ പാർട്ടികൾ നടത്തുകയും വിലയേറിയ സമ്മാനങ്ങൾ നൽകുകയും തുടർന്ന് വളരെ വിലയേറിയ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു വിലകൂടിയ വസ്ത്രങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുക അതിനാൽ എല്ലാം വരുമാന പരിധിക്കുള്ളിൽ ആണെങ്കിൽ അത് നല്ലതാണ് പക്ഷേ അത് കവിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി തന്നെ ഒരു പ്രശ്നമുണ്ടാക്കാം സഹപ്രവർത്തകരേ ജോലിസ്ഥലത്ത് അതിനാൽ എല്ലാ ആളുകളും ഒരുപോലെയല്ല ചില ആളുകൾക്ക് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ മുന്നിൽ വരുന്ന വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ പോലും അതിനാൽ ആ ദിവസം ഉയർന്ന സമ്മർദ്ദത്തോടെയാണ് ആരംഭിക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ കാലുകൾ വലിക്കാൻ പോകുകയാണോ ആ വ്യക്തി നിങ്ങളെ കൈകാര്യം ചെയ്യാനും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാനും ശ്രമിക്കുകയാണോ എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു കാരണം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി തിന്മയാണ് അതിനാൽ ആ വ്യക്തി നല്ലവനല്ല ഒരുപക്ഷേ ശരിയാണ് തുടർന്ന് ആ വ്യക്തിയെ കാണുന്നതിലൂടെ അത് നിങ്ങൾക്ക് ഒരുതരം സമ്മർദ്ദം നൽകും പിന്നെ പൊതുവായ ചുറ്റുപാടുകളിൽ ഞാൻ പറഞ്ഞതുപോലെ പരിസ്ഥിതിയെ മാറ്റുന്ന എന്തും അത് നിങ്ങളുടെ കംഫർട്ട് സോണിനെ തകർക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാക്കും വിദ്യാഭ്യാസത്തിൽ പാഠ്യപദ്ധതിക്കായി ക്ലാസ് മുറിയിലോ പുറത്തോ മത്സരം നടക്കുമ്പോൾ അല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം നൽകും എന്നാൽ മിക്കപ്പോഴും വിദ്യാഭ്യാസത്തിൽ അത് ഒരു പോസിറ്റീവ് തരത്തിലുള്ള സമ്മർദ്ദമായിരിക്കണം വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദത്തെ മറികടക്കാൻ കഴിയാത്തതും നേരിടാൻ കഴിയാത്തതുമായ ചില അപൂർവ ഇളവുകൾ കേൾക്കുക അതുമായി മുന്നോട്ട് പോകുകയും പിന്നീട് ഒന്നുകിൽ മോശം ശീലങ്ങൾക്ക് ഇരയാകുന്നതുവരെ പോകുകയും ചെയ്യുക മദ്യമോ ഏതെങ്കിലും ലഹരിവസ്തുക്കളോ കഴിക്കുകയോ അല്ലെങ്കിൽ വൈകാരികമാകുന്നതുവരെ പോകുകയോ ചെയ്യുക പിന്നെ മാനസികമായി ദുർബലനാകുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു നിർഭാഗ്യവശാൽ രണ്ടും സംഭവിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയും ഞാൻ ഇട്ട ചിത്രം നോക്കൂ അതിനാൽ ചുവപ്പ് മോശം സമ്മർദ്ദമാണെന്നും നീല നല്ല സമ്മർദ്ദമാണെന്നും നിങ്ങൾക്ക് പറയാം ഇപ്പോൾ നിങ്ങൾ മോശം സമ്മർദ്ദവും നല്ല സമ്മർദ്ദവും നിയന്ത്രിക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു വെയ്റ്റ് റെഗുലേറ്റർ ഉണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് അത് നിങ്ങളുടെ ആത്മാവിൽ ഉണ്ട് അതിനാൽ നിങ്ങൾ ഇത് സൂക്ഷിക്കുകയും തുടർന്ന് മിതത്വം പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം വ്യക്തിപരമായ ആരോഗ്യ ശീലങ്ങൾ വികസിപ്പിക്കുക ആരോഗ്യത്തോടെയിരിക്കുക എന്നതാണ് ഇപ്പോൾ ഞാൻ ഫിറ്റ്നസ് നിലനിർത്തുക എന്ന് പറയുമ്പോൾ ആറ് പായ്ക്കുകൾ പരിപാലിക്കാൻ ശ്രമിക്കുക ചെലവഴിക്കുക എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല ജിമ്മിൽ നിങ്ങളുടെ മുഴുവൻ സമയവും ഓടുന്നതിനോ ജോഗിംഗിനോ ചെലവഴിക്കുക ഇല്ല ഒരു ദിവസം കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും അത് നടക്കാം ജോഗിംഗ് ആകാം കനത്ത സൈക്ലിംഗ് ആകാം അതിനാൽ അത് നടക്കാം ചില ഗെയിമുകൾ കളിക്കുക അത് ടെന്നീസ് കളിക്കുകയോ ടിടി അല്ലെങ്കിൽ സ്ക്വാഷ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളിക്കുകയോ ആകാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം പക്ഷേ കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവൃത്തിദിവസങ്ങളിലും വാരാന്ത്യങ്ങളിലും ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ ഏകദേശം ഒന്നര മണിക്കൂർ അതിനാൽ നിങ്ങൾ ഫിറ്റ്നസ് നിലനിർത്തും ഇപ്പോൾ നിങ്ങൾ സാധാരണയായി രാവിലെ അതിരാവിലെ ചെയ്യേണ്ട ആ ശീലത്തിന് പുറമെ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയതിനുശേഷം നിങ്ങൾ അതിരാവിലെയാണ് ഉണരുന്നതെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രാത്രിയും 7 മുതൽ 8 മണിക്കൂർ വരെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെങ്കിൽ അപ്പോൾ കനത്ത ഇടിമിന്നലോ മിന്നലോ ഉണ്ടെങ്കിലും ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല അപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുക അങ്ങനെ ഉറങ്ങുക ആഴത്തിലുള്ള ഉറക്കം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക 45 മിനിറ്റ് ജോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ നിങ്ങൾ ആരോഗ്യവാനാകും ഇതിലേക്ക് ചില ആളുകൾ യോഗയോ ധ്യാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മീയ അനുഭവമോ ചേർക്കുന്നു സമാധാനപരമായ ഒരു സ്ഥലത്തേക്ക് പോകുക മാത്രം ചെയ്യുക ചിലർക്ക് സമാധാനപരമായ സ്ഥലം ക്ഷേത്രമോ പള്ളിയോ പള്ളിയോ ആകാം ചിലർക്ക് സമാധാനപരമായ സ്ഥലമോ ആകാം നിങ്ങൾക്ക് ഇരിക്കാനും പിന്നെ വിശ്രമിക്കാനും കഴിയുന്ന വളരെ ശാന്തമായ ഒരു സ്വാഭാവിക അന്തരീക്ഷം മാത്രമായിരിക്കാം ഇത് ഒരു നദിയുടെ മുന്നിൽ ഇരുന്ന് കടലിന് ചുറ്റും നടക്കുന്നു ഉദാഹരണത്തിന് കടലിന് ചുറ്റും നടക്കുന്നത് നിങ്ങൾ തീരപ്രദേശങ്ങൾക്ക് സമീപമാണ് താമസിക്കുന്നതെങ്കിൽ അതിരാവിലെ നിങ്ങൾക്ക് ധാരാളം ശാന്തമായ ഫലങ്ങൾ നൽകും നമ്മുടെ തലച്ചോർ തന്നെ തിരമാലകളുമായി പൊരുത്തപ്പെടുന്നുവെന്ന് വൈദ്യശാസ്ത്രപരമായി പോലും തെളിയിക്കപ്പെട്ടുവെന്ന് അവർ പറയുന്നു ശബ്ദവും തുടർന്ന് നിങ്ങൾ കാണുന്ന കാഴ്ചയും യഥാർത്ഥത്തിൽ ഒരുതരം ശാന്തമായ ഫലമാണ് നൽകുന്നത് നിങ്ങളുടെ ഉറക്കം നിയന്ത്രിക്കുകയും തുടർന്ന് വളരെ പതിവായി ഉറക്കം നിലനിർത്തുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം വ്യായാമ രീതി ഒരു ആചാരമായി മാറുന്നു അടുത്ത കാര്യം കൃത്യസമയത്ത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നതാണ് അതിനാൽ നിങ്ങളുടെ പ്രഭാതഭക്ഷണം കഴിക്കണം അത് നിർബന്ധവും നിർബന്ധവുമാണെന്ന് പൊതുവായ പഴഞ്ചൊല്ലുകൾ പറയുന്നു ഒരു രാജകുമാരനെപ്പോലെ അവർ പറയുന്നതുപോലെ നിങ്ങൾക്ക് അത് കഴിക്കാൻ കഴിയണം അതിനാൽ നിങ്ങൾ ധാരാളം കഴിക്കണം തുടർന്ന് ഉച്ചഭക്ഷണം മിതമായി കഴിക്കുക പിന്നെ നിങ്ങൾ അത്താഴത്തിന് വരുമ്പോൾ നിങ്ങൾ ഒരു ദരിദ്രനെപ്പോലെ കഴിക്കുന്നു പണമില്ലാത്ത ഒരാളെപ്പോലെ നിങ്ങൾ കഴിക്കുന്നു എന്ന് അവർ പറയുന്നു വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ ഇത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക തുടർന്ന് ഉറങ്ങുന്നതിനുമുമ്പ് കുറച്ച് ഇടവേള നൽകുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദവും പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഇത് മാത്രം നിങ്ങളെ സഹായിക്കും ഇപ്പോൾ മിക്കപ്പോഴും നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഉറക്കത്തിലേക്ക് കടന്നുകയറും നിങ്ങളുടെ ജോലി സംഭവിക്കും നിങ്ങളുടെ പതിവ് ഭക്ഷണശീലത്തെ ബാധിക്കുകയും നിങ്ങളുടെ കുടുംബ സമ്മർദ്ദം നിങ്ങളുടെ വ്യായാമത്തെ ബാധിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെടുന്ന നിമിഷം വ്യായാമം പോയി ഉറക്കം പോയി തുടർന്ന് യോഗയോ ധ്യാനമോ പോലെയുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നു നിങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതിനാൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് ഇല്ലാതാകുന്നു അതിനാൽ നിങ്ങൾ റോഡിൽ ലഭ്യമായ ജങ്ക് ഫുഡ് കഴിക്കുന്നു അതിനാൽ നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു നിങ്ങൾ ഈ ചക്രം തകർക്കുകയാണെങ്കിൽ എല്ലാം പോകാം കഴിക്കുക ഉറങ്ങുക തുടർന്ന് വ്യായാമം ചെയ്യുക ഇത് തകർന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്മർദ്ദത്തിന് കാരണമാകുന്നു അതിനാൽ അത് ചെയ്യരുത് അപ്പോൾ ശ്രദ്ധിക്കുക അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ കുളിക്കുകയോ ചായ കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധാലുവായിരിക്കാൻ കഴിയണം ഇപ്പോൾ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ മൈൻഡ്ഫുൾനസ് എന്ന് പറയുന്നു അതിനാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്ന് മൈൻഡ്ഫുൾനസ് സൂചിപ്പിക്കുന്നു നിങ്ങൾ കുളിക്കുമ്പോഴും ഇത് പ്രയോഗിക്കുക നിങ്ങളുടെ ശരീരത്തിലെ കുളികളിലൂടെ തളിക്കുന്ന വെള്ളത്തിലേക്ക് പൂർണ്ണമായും ജീവനോടെ അനുഭവപ്പെടുക നിങ്ങൾ ചായ കുടിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് മുഴുവൻ അതിന്റെ സുഗന്ധം ആസ്വദിക്കുന്നു ചായ എന്നിട്ട് ഓ ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നതിനുപകരം ചായയുടെ രുചി ആസ്വദിക്കുന്നു അവിടെ എന്താണ് എന്നെ കാത്തിരിക്കുന്നത് അതിനാൽ എല്ലാം ചിന്തിക്കരുത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ ചെറിയ കാര്യമാണെങ്കിൽപ്പോലും പൂർണ്ണമായും ചെയ്യുകഃ വെള്ളം കുടിക്കുക അത് കുടിക്കുന്നത് ആസ്വദിക്കുക സമ്മർദ്ദം നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന അടുത്ത കാര്യം നിങ്ങൾ ജോലി ആസൂത്രണം ചെയ്യുകയും തുടർന്ന് പദ്ധതി നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് അതിനാൽ നിങ്ങളുടെ ജോലി ആസൂത്രണം ചെയ്യാതെയും തുടർന്ന് ജോലി ചെയ്യാൻ ശ്രമിക്കാതെ ഒരു തരത്തിലും നിങ്ങളുടെ സമ്മർദ്ദം നിർത്താൻ കഴിയില്ല പദ്ധതി കൃത്യസമയത്ത് നടപ്പിലാക്കുക നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും ഒരുപക്ഷേ വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ ഈ വർക്ക് പ്ലാൻ തുടർന്ന് സമ്മർദ്ദത്തിലാകാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാം എന്നാൽ ഈ ഘട്ടത്തിൽ നിങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ടെന്ന് നിങ്ങളോട് പറയാൻ മതിയാകും തുടർന്ന് നിങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് സമയപരിധിക്ക് മുമ്പ് നിങ്ങൾ പൂർത്തിയാക്കുകയും തുടർന്ന് കുറച്ച് ഒഴിവു സമയം ലഭിക്കുകയും തുടർന്ന് ജോലിയിൽ നിന്ന് ഇടവേള എടുക്കുകയും ചെയ്യുക ചിലപ്പോൾ ജോലിചെയ്യാതിരിക്കുക ഇടവേള എടുക്കുക ഒരു കപ്പ് ചായ കുടിക്കാൻ പോകുക നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുക നിങ്ങളുടെ സഹപ്രവർത്തകനോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ 23 വർഷമായി അവധിയെടുക്കാതെ തുടർച്ചയായി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഏത് തൊഴിലിലും നിങ്ങൾ ജോലിയിൽ നിന്ന് ഒരു നീണ്ട ഇടവേള എടുക്കേണ്ട സമയമാണിത് അതിനാൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഹിമാലയത്തിലേക്ക് പോകാം എന്നതുപോലുള്ള ചില പർവതങ്ങളിലേക്ക് പോകുക അതിനാൽ ശ്വസിക്കുക അനുഭവിക്കുക പർവ്വതം അനുഭവിക്കുക അങ്ങനെ അത് നിങ്ങൾക്ക് നൽകും ഒരുതരം ഉന്മേഷം തോന്നൽ മഞ്ഞിനെ നോക്കുമ്പോൾ പോലും അത് ഒരുതരം ഊർജ്ജസ്വലമായ അനുഭവമാണെന്ന് അവർ പറയുന്നു നിങ്ങളുടെ ജോലിയിൽ നിന്ന് ഒരു ഇടവേള എടുക്കുക അത് വീണ്ടും പ്രധാനമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സമ്മർദ്ദത്തിൽ നിന്ന് വേഗത്തിൽ ആശ്വാസം ലഭിക്കണമെങ്കിൽ അവർ പറയുന്നു നിങ്ങൾക്ക് കുളിക്കാൻ കഴിയുന്നതുപോലെ വളരെ ചെറിയ ചില കാര്യങ്ങളുണ്ട് ചില ആളുകൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ഇഷ്ടപ്പെടുന്നു പ്രത്യേകിച്ചും ശൈത്യകാലത്തോ തണുത്ത കുളിയിലോ ചില ആളുകൾ ഇഷ്ടപ്പെടുന്നു അതിനാൽ അത് എന്തുതന്നെയായാലും അത് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാൻ പോകുന്നു പക്ഷേ നിങ്ങൾ കുളിക്കുന്നത് ആസ്വദിക്കണം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നു വളരെ അടുത്ത സുഹൃത്തായ ഒരാൾ കുറച്ചുകാലമായി നിങ്ങൾക്ക് ബന്ധം നഷ്ടപ്പെടുന്നു സമയം വിളിക്കുകയും സംസാരിക്കുകയും സുഹൃത്തിനെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുക അത് സുഹൃത്തുമായി പങ്കിടുക പോലും ചെയ്യുക ഈ പ്രത്യേക കാരണത്താൽ നിങ്ങൾ സമ്മർദ്ദത്തിലാണ് ഓ സുഹൃത്ത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയും ഓ നിങ്ങൾ അത്തരമൊരു വിഭവശേഷിയുള്ള വ്യക്തിയാണെന്നും നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ലെന്നും നിങ്ങളോട് പറയുക അങ്ങനെയാണെങ്കിൽ ആ ഉറപ്പ് നിങ്ങളെ വീണ്ടും ഊർജ്ജസ്വലരായി കാണുകയും നിങ്ങളുടെ ജോലിയിലേക്ക് മടങ്ങുകയും ചെയ്യും സ്വാഭാവികമായ ഒരു ക്രമീകരണത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ മുറിക്കുള്ളിൽ ആണെങ്കിൽപ്പോലും പുറത്തുകടക്കുക ഒരു പുൽത്തകിടിയുണ്ട് പോയി പുൽത്തകിടിയിൽ ഒരു ചെറിയ നടത്തം നടത്തുക അത് കുറയ്ക്കും സമ്മർദ്ദം നിങ്ങളുടെ പ്രിയപ്പെട്ട സംഗീതമോ ശാന്തമായ ഏതെങ്കിലും സംഗീതമോ കേൾക്കുന്നത് അത് വീണ്ടും കുറയ്ക്കാൻ പോകുന്നു എന്തുകൊണ്ട് സംഗീതം തന്നെ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആകർഷിക്കുന്നതിനാൽ അത് നിങ്ങളുടെ വികാരത്തെ ആകർഷിക്കുന്നു അത് നിങ്ങളുടെ ആത്മാവിനെയും സ്പർശിക്കുന്നു പിന്നെ ഇവിടെ ഏത് തരത്തിലുള്ള സംഗീതമായിരിക്കണം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സംഗീതം മാത്രമേ ഞാൻ പറയൂ നിങ്ങളിൽ ചിലർക്ക് പ്രിയപ്പെട്ട ചില ഗായകർ ഇഷ്ടപ്പെട്ടേക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ട ഗായകർക്കായി പോകുക ചിലർക്ക് ചില ഗസലുകളും മറ്റെല്ലാം ഇഷ്ടമാണ് എന്നാൽ ചിലർ റോക്ക് സംഗീതം ആസ്വദിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവ ഏറ്റവും ജനപ്രിയമായവ കേൾക്കുക പിന്നെ ചില സമയങ്ങളിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾക്കായി ആഴത്തിൽ ശ്വസിക്കുക അതിനാൽ വളരെ ആഴത്തിൽ ശ്വസിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക പ്രത്യേകിച്ചും ഒരു പ്രഭാഷണത്തിന് പോകുന്നതിനുമുമ്പ് ഒരു അഭിമുഖം നൽകുന്നതിനുമുമ്പ് അവർ പറയുന്നു അതിനാൽ ഈ ആഴത്തിലുള്ള ശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ പോലും നിങ്ങളെ പുറത്ത് വിളിച്ചുപറയാൻ എടുക്കുക കുറച്ച് ആഴത്തിലുള്ള ശ്വസനം അത് നിങ്ങളെ സഹായിക്കും ചില ആളുകൾക്ക് ഒരു പ്രിയപ്പെട്ട സിനിമ കാണുന്നത് അത് സമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു മറ്റു പലർക്കും ഒരു പ്രിയപ്പെട്ട നോവൽ അല്ലെങ്കിൽ പ്രചോദനാത്മകമായ പുസ്തകങ്ങളിൽ നിന്നുള്ള പേജുകൾ പോലും വായിക്കുക അതിനാൽ ചില ആളുകൾ ബൈബിൾ ഖുറാൻ ഗീത തുടങ്ങിയ മതപരമായ ലിപികളിലേക്ക് പോലും പോകുന്നു അവർക്ക് അത് കാണാൻ കഴിയും ചിലർ ക്ഷേത്രത്തിലോ പള്ളിയിലോ പള്ളിയിലോ പോകുന്നു ചിലർക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു മാളിൽ ഷോപ്പിംഗിന് പോകുന്നത് പോലും നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ചിലരുണ്ട് അവസാനത്തേത് പക്ഷേ ഏറ്റവും കുറഞ്ഞ ചിരിയല്ല അതിനാൽ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സമ്മർദ്ദത്തിൽ നിന്ന് വളരെയധികം ആശ്വാസം നൽകും നിങ്ങളുടെ പ്രിയപ്പെട്ട കോമിക് സിനിമകൾ കാണുക അല്ലെങ്കിൽ വായിക്കുന്ന ഏതെങ്കിലും കോമിക് പുസ്തകങ്ങൾ പോലും നിങ്ങളെ സഹായിക്കും അവസാനമായി നിങ്ങൾ സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരാകണമെന്നും ഞാൻ നിർദ്ദേശിക്കുന്നു ആദ്യം ഇൻട്രാപഴ്സണൽ തലത്തിലും പിന്നീട് ആരോഗ്യകരമായ ശീലങ്ങൾ നിലനിർത്തുന്നതിലൂടെയും സമ്മർദ്ദത്തിൽ പ്രാവീണ്യം നേടുക എന്നാൽ പിന്നീട് ഇൻട്രാപഴ്സണലിലേക്കും പിന്നീട് ഇന്റർ ഗ്രൂപ്പ് സ്ട്രെസ്സ് ലെവലിലേക്കും പോകുക സമ്മർദ്ദമുള്ള ആളുകളെ തിരിച്ചറിയുക പോയി അവരെ സഹായിക്കുക നിർദ്ദേശങ്ങൾ നൽകുക അവരോട് തമാശകൾ പറയുക നിങ്ങളുടെ അനുഭവം പങ്കിടുക അവരെ സംസാരിപ്പിക്കുക അവരെ ചിരിപ്പിക്കുക അവസാനത്തെ ചിന്തയെന്ന നിലയിൽ ഈ ഷെറേക്ക ഡൺസ്റ്റൺ എന്ന പരിശീലകനിൽ നിന്ന് ഇത് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരാണ് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് യഥാർത്ഥത്തിൽ ലൈഫ് മാനേജ്മെന്റാണ് നിങ്ങളുടെ സമ്മർദ്ദത്തെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അതിന് നന്ദി പറയും ഇത് കേട്ടതിന് നന്ദി സമ്മർദ്ദം നിയന്ത്രിക്കാനും വളരെ നന്ദിയുള്ള ജീവിതം നയിക്കാനും നിങ്ങൾ ഈ നുറുങ്ങുകൾ ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു

നന്ദി